ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് തിരികെ സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് കൂടാതെ ഞാൻ നിങ്ങളെ ഈ കോഴ്സ് പഠിപ്പിക്കും സമയം കുറച്ചതിനാൽ നമുക്ക് മുന്നോട്ട് പോകാം ഞങ്ങൾ പേ സിസ്റ്റങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് പേ ആൻഡ് റിവാർഡ് സംവിധാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം റിവൈസിങ്ങിനായി ഞാൻ സമയം ചിലവഴിക്കില്ല ഈ പ്രഭാഷണങ്ങൾക്കായി ഞാൻ ഉപയോഗിച്ച സോർസസ് ഇവയാണ് ഈ പ്രഭാഷണത്തിന് പ്രത്യേകിച്ച് കാസിയോയുടെ പുസ്തകവും ഗോമസ് മെജിയ ബെൽകിൻ എന്നിവരുടെ പുസ്തകവും പരാമർശിക്കപ്പെടുന്നു ട്രസ്റ്റ് ഗാപ്നെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു കൂടാതെ എന്തുകൊണ്ടാണ് ജീവനക്കാർ അവരുടെ സ്ഥാപനങ്ങളെയോ അവരുടെ തൊഴിലുടമകളെയോ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ വിടവ് എന്തുകൊണ്ടാണ് തങ്ങളോട് നീതി പുലർത്തുന്നില്ലെന്ന് ജീവനക്കാർക്ക് തോന്നുന്നത് ടോപ്പ് മാനേജ്മെന്റ് മിഡിൽ മാനേജ്മെന്റ് ഫ്രണ്ട്ലൈൻ തൊഴിലാളികൾ എന്നിവർക്കിടയിൽ ഇൻസെൻറ്റിവിൽ അസമത്വം ഉണ്ടാകാം തങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ആളുകൾക്ക് സുഖകരമല്ലായിരിക്കാം കൂടാതെ ശമ്പളം വളരെ കൂടുതലായിരിക്കാം ടോപ്പ് മാനേജ്മെന്റിന് വളരെയധികം പ്രതിഫലം നൽകാം കൂടാതെ മിഡിൽ മാനേജ്മെന്റിന് ഇത്രയധികം പ്രതിഫലം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സംഘടനയെ വിശ്വാസമില്ലായിരിക്കാം ടോപ്പ് മാനേജ്മെന്റിന്റെ കഴിവിലുള്ള ആത്മവിശ്വാസം കുറയുന്നു ആളുകൾക്ക് അവരുടെ മുതിർന്നവരെ അത്ര വിശ്വാസമില്ലായിരിക്കാം അതിനാൽ അത് ഒരു കാരണമായിരിക്കാം ട്രസ്റ്റ് ഗാപ് ഉയർത്തുന്ന ചില വെല്ലുവിളികളാണിത് എന്തുകൊണ്ടാണ് നമ്മൾ മുതിർന്നവരെ വിശ്വസിക്കാത്തത് കൂടാതെ ഇത് ഞങ്ങളുടെ ജോലിയെ എങ്ങനെ ബാധിക്കും ഞങ്ങളോട് അന്യായമായി പെരുമാറുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ജീവനക്കാരാണ് തങ്ങളോട് അന്യായമായി പെരുമാറുന്നുവെന്ന് ജീവനക്കാർക്ക് തോന്നിയേക്കാം കൂടാതെ അവർ അവരുടെ സ്വന്തം കാരണങ്ങൾ കൊണ്ട് വരാൻ ശ്രമിച്ചേക്കാം അത് സത്യമോ അസത്യമോ ആകാം ജീവനക്കാരിൽ നിന്നുള്ള പ്രതിബദ്ധതയുടെ അഭാവത്തിൽ ട്രസ്റ്റ് ഗാപ്ന്റെ പ്രവചനാതീതമായ അനന്തരഫലങ്ങൾ ഉണ്ടാകാം കൂടാതെ ഈ ട്രസ്റ്റ് ഗാപ് കൈകാര്യം ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും ഞങ്ങൾ ചെയ്യുന്നതെന്തും ഞങ്ങളുടെ ജീവനക്കാർക്ക് വേണ്ടത്ര ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ട്രസ്റ്റ് ഗാപ് ഉയർത്തുന്ന ചില വെല്ലുവിളികളാണിത് ഇപ്പോൾ പേ സിസ്റ്റങ്ങളെ സംബന്ധിച്ച തത്ത്വചിന്തകൾ എങ്ങനെ മാറുന്നു തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ ഓർഗനൈസേഷനുകൾ തയ്യാറാണ് കൂടാതെ കുറച്ച് ആളുകൾ വലിയ അളവിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെ അവർ കൂടുതൽ കൂടുതൽ അംഗീകരിക്കുന്നു വൻതോതിൽ ആളുകൾക്ക് ജോലി നൽകേണ്ട ആവശ്യം മുൻകാലങ്ങളിലേത് പോലെ ഇല്ല കൂടാതെ കൂലിയുടെ വില നിയന്ത്രിക്കാനും കോമ്പൻസേഷൻ നിയന്ത്രിക്കാനും കൂടുതൽ സമ്മർദ്ദമുണ്ട് വീണ്ടും ഞങ്ങൾ കോമ്പൻസേഷനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓർഗനൈസേഷൻ ജീവനക്കാർക്കായി എത്ര പണം ചെലവഴിക്കുന്നു ഓർഗനൈസേഷന്റെ നടത്തിപ്പ് മുതലായവ നിയന്ത്രിക്കാൻ സമ്മർദ്ദം വർദ്ധിക്കുന്നു മത്സരാർത്ഥികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശമ്പള സ്ഥാനവുമായി ബന്ധപ്പെട്ട് ആശങ്ക കുറവാണ് കാരണം ധാരാളം സംഘടനകൾ അവിടെയുണ്ട് കൂടാതെ നിരവധി ആളുകളുണ്ട് ജീവനക്കാരല്ല പക്ഷേ സംഘടനയ്ക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ കഴിയുന്ന നിരവധി ആളുകൾ ജീവനക്കാർക്ക് വലിയ തുക വാഗ്ദാനം ചെയ്യുന്നത് അവരുടെ ആശങ്കയല്ല അതിനാൽ അവർ പറയുന്നു ശരി ഞങ്ങൾ നിങ്ങൾക്ക് ഇത്രയും തരാം എടുക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക ജോലിയില്ലാത്ത എത്രയോ പേരുണ്ട് കമ്പനി പറയുന്നു എനിക്ക് താങ്ങാൻ കഴിയുന്നത് ഇതാണ് കൂടാതെ നിങ്ങൾക്ക് എന്നോടൊപ്പം പ്രവർത്തിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ശരി മറ്റൊരു ജോലി കണ്ടെത്തൂ അതിനാൽ കമ്പനി എന്ത് നൽകണം എന്ന കാര്യത്തിൽ ആശങ്ക കുറവാണ് കമ്പനിയുടെ ലാഭം പരമാവധിയാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകുന്നു തുടർന്ന് പ്രകടനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും റിവാർഡ് നൽകുന്നതിനുമുള്ള പരിപാടികൾ നടപ്പിലാക്കുക നിങ്ങളുടെ ജോലി നന്നായി ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന് അവർ പറയുന്നു അതിനാൽ വേരിയബിൾ പേ ഉണ്ട് വേരിയബിൾ പേ എന്ന ഈ ആശയം ഉണ്ട് കൂടാതെ വ്യത്യസ്ത ജീവനക്കാരുടെ ഔട്ട്പുട്ട് കണക്കിലെടുത്താണ് ന്യായം വരുന്നത് അത് മറ്റൊരാൾക്ക് ലഭിക്കുന്നതല്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പണം കൊണ്ടുവരണം അതിനാൽ മുമ്പെന്നത്തേക്കാളും കൂടുതൽ ഇപ്പോൾ തങ്ങളുടെ മൂല്യം തെളിയിക്കാൻ ജീവനക്കാർക്ക് കൂടുതൽ ഊന്നൽ നൽകുകയോ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നു കൂടാതെ അത് വേരിയബിൾ പേയുടെ ആവശ്യത്തിലേക്കും വേരിയബിൾ പേയുടെ കൂടുതൽ സ്വീകാര്യതയിലേക്കും നയിക്കുന്നു ശമ്പള ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണ് മാറുന്നത് സാലറി അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങൾ ചെലവ് നിയന്ത്രണ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നു ശ്രമിച്ചു മനസ്സിലാക്കുക ചെലവ് നിയന്ത്രണമെന്നാൽ സ്ഥാപനത്തിന് കൂടുതൽ ചെലവുകൾ കുറയ്ക്കാനോ തടയാനോ ആണ് നിങ്ങൾ എത്രമാത്രം പരിമിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കായി ഓർഗനൈസേഷന് എത്രമാത്രം ചെലവഴിക്കാം അല്ലെങ്കിൽ ചെലവഴിക്കണം എന്നതിന് ഒരു സ്ലാബ് ഇടുക അതിനാൽ ശമ്പള നിലവാരം നിർണ്ണയിക്കുന്ന സാമ്പത്തികവും നിയമപരവുമായ ഘടകങ്ങൾ മനസിലാക്കാൻ ഓർഗനൈസേഷനുകൾ കൂടുതലായി ശ്രമിക്കുന്നു നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഓർഗനൈസേഷനുകൾ അവരുടെ ജീവനക്കാർക്ക് എത്ര തുക നൽകണം എന്നതിന് നിയമം എന്താണ് നിർദ്ദേശിക്കുന്നതെന്ന് കണ്ടെത്താൻ അവർ കൂടുതൽ ശ്രമിക്കുന്നു കൂടാതെ വ്യവസായം അവർക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ മാർക്കറ്റുകൾക്ക് അവരുടെ ജീവനക്കാർക്ക് എങ്ങനെ ശമ്പളം നൽകണം കോമ്പൻസേഷൻ തന്ത്രത്തെ പൊതു ബിസിനസ്സ് തന്ത്രവുമായി ബന്ധിപ്പിക്കാനും അവർ ശ്രമിക്കുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ സംസാരിച്ചത് എന്താണ് നിങ്ങളുടെ കോമ്പൻസേഷൻ പദ്ധതിയുമായി നിങ്ങളുടെ ബിസിനസ്സ് പ്ലാൻ വിന്യസിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവനക്കാരിൽ നിന്നുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിനും ലാഭം നേടുന്നതിനും നിങ്ങൾ എന്തുചെയ്യണം അതിനാൽ ഇത് വളരെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയാണ് അത് കൈവരിക്കേണ്ടതുണ്ട് പ്രധാന നയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വ്യവസ്ഥാപിത ശമ്പള ഘടന വികസിപ്പിക്കുകയും ചെയ്യുക ശമ്പള ഘടന വ്യവസ്ഥാപിതവും ശക്തവുമാണെങ്കിൽ അതിനെ വെല്ലുവിളിക്കാനാവില്ല അത് സുസ്ഥിരമായിരിക്കും അതിലേക്കാണ് സംഘടനകൾ പോകുന്നത് കമ്പനിക്ക് താങ്ങാൻ കഴിയുന്ന തുക നൽകുന്നു പർഫോർമൻസ് പ്രോത്സാഹിപ്പിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്ന പ്രോഗ്രാമുകൾ അതിനാൽ നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കുറഞ്ഞ തുക നിങ്ങൾ നൽകരുത് കൂടാതെ നിങ്ങൾ അതിരുകടക്കരുത് അവർ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവനക്കാരെ എന്തുതന്നെയായാലും പരിപാലിക്കുന്നു അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ പർഫോർമൻസ് പ്രോത്സാഹിപ്പിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്ന പ്രോഗ്രാമുകൾ നടപ്പിലാക്കാനും അവർ ശ്രമിക്കുന്നു സംഘടനാ റിവാർഡ് സിസ്റ്റങ്ങളുടെ ചില ഘടകങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് നോക്കാം ഓർഗനൈസേഷനുകൾ അവരുടെ ജീവനക്കാർക്ക് എങ്ങനെ പ്രതിഫലം നൽകുന്നു റിവാർഡുകളിൽ ഒരു ജീവനക്കാരൻ വിലമതിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒരു തൊഴിലുടമയ്ക്ക് കഴിയുന്നതും ജീവനക്കാരുടെ സംഭാവനകൾക്ക് പകരമായി നൽകാൻ തയ്യാറുള്ളതും ഉൾപ്പെടുന്നു നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് സാധാരണ അടിസ്ഥാന മിനിമം ജോലിയല്ല പക്ഷേ കമ്പനി വിലപ്പെട്ടതായി കരുതുന്ന എന്തും മിക്ക കേസുകളിലും സാധാരണ ജോലി വിവരണത്തിനുള്ളിൽ കമ്പനി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വശങ്ങളാണ് അവ അതിനാൽ ജീവനക്കാരൻ കൂടുതൽ സംഭാവന നൽകുകയാണെങ്കിൽ ജീവനക്കാരന് കൂടുതൽ ലഭിക്കും കൂടാതെ ചില തരത്തിലുള്ള റിവാർഡ് സംവിധാനങ്ങൾ സാമ്പത്തികമാണ് ശമ്പളം കിട്ടും ശമ്പളം പ്രതിഫലമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേരിയബിൾ പേയും ഇൻഡറെക്റ്റ് റിവാർഡുകളും ഉണ്ട് അവ ആനുകൂല്യങ്ങളാണ് ചില നോൺ ഫിനാൻഷ്യൽ റിവാർഡുകൾ സംരക്ഷണ പരിപാടികളാണ് അതിനാൽ നിങ്ങളുടെ ഡ്യൂട്ടി ലൈനിൽ നിങ്ങൾ ഒരു യഥാർത്ഥ തെറ്റ് വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂട്ടി ലൈനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംഘടന നിങ്ങളെ പരിപാലിക്കുന്നു നിയമപരമായും സാമ്പത്തികമായും നിങ്ങളുടെ ആരോഗ്യ ആവശ്യങ്ങൾ മുതലായവ പരിപാലിക്കുന്നു തീരുമാനമെടുക്കുന്നതിൽ ജീവനക്കാരുടെ ഇടപെടൽ ഓർഗനൈസേഷന് നിങ്ങൾ ചെയ്യേണ്ടതിലും മികച്ചതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വ്യത്യസ്ത തലങ്ങളിൽ തീരുമാനമെടുക്കുന്നതിൽ അവർ നിങ്ങളെ ഉൾപ്പെടുത്തിയേക്കാം ചില സംഘടനകൾ അവരുടെ നയത്തിന്റെ ഭാഗമായി അത് ചെയ്യുന്നു എന്നാൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിക്കുകയാണെങ്കിൽ തങ്ങൾ വിലമതിക്കപ്പെട്ടവരാണെന്ന് ജീവനക്കാർ കരുതുന്നു എന്ന് സംഘടനകൾ തിരിച്ചറിയുന്നു കൂടാതെ അവർ എടുക്കാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായങ്ങളിൽ ഉള്ള ജീവനക്കാരെ അവർ തിരഞ്ഞെടുക്കുന്നു ഞങ്ങൾക്ക് ഇഫെക്റ്റിവ് സൂപർവിഷൻ ഉണ്ട് കൂടാതെ അത് സാമ്പത്തികേതര പ്രതിഫലമാണ് അതിനാൽ മേൽനോട്ടം നിങ്ങളെ സഹായിക്കുന്നു നിങ്ങളുടെ പ്രകടനം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് സൂപ്പർവൈസർമാർ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നു കൂടാതെ അത് വളരെ ആത്മനിഷ്ഠമാണ് കൂടാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അംഗീകാരം തുടർന്ന് ഈ അംഗീകാരത്തിന്റെ ആശയവിനിമയം സ്ഥാപനത്തിലുടനീളം നടക്കുന്നു പരിശീലന അവസരങ്ങൾ നൽകിയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും നന്നായി ചെയ്യുക നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് എക്സ് പഠിക്കണം സംഘടന പറയുന്നു ശരി പോകൂ അവർ നിങ്ങളുടെ യാത്രയ്ക്ക് പണം നൽകും അവർ നിങ്ങളുടെ താമസത്തിന് പണം നൽകും കൂടുതൽ പഠിക്കാനുള്ള നിങ്ങളുടെ ആവശ്യത്തിന് അവർ പണം നൽകും അതിനാൽ നിങ്ങൾക്ക് തിരികെ വന്ന് ഓർഗനൈസേഷനിലേക്ക് സംഭാവന ചെയ്യുന്നത് തുടരാം കൂടാതെ പിന്തുണ നൽകുന്ന സംഘടനാ സംസ്കാരം എനിക്ക് ഇത് വേണ്ടത്ര ഊന്നിപ്പറയാൻ കഴിയില്ല ഒരു സ്ഥാപനം സുഗമമായി നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മളെല്ലാം മനുഷ്യരാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നു നിങ്ങളും ഞാനും മനുഷ്യരാണ് യന്ത്രങ്ങളെപ്പോലെ പരിഗണിക്കപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ മറ്റാരെയും ഒരു യന്ത്രം പോലെ പരിഗണിക്കരുത് അതിനാൽ നമുക്ക് എന്താണ് വേണ്ടത് നമ്മളെ മനുഷ്യരെപ്പോലെ പരിഗണിക്കുന്ന ഒരു സംഘടനയാണ് നമുക്കാവശ്യം അതുകൊണ്ടാണ് ഞാൻ എന്റെ ഐഐടിയെ സ്നേഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയും ഒരു വലിയ കുടുംബമാണ് നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നു അത് തിരുത്താൻ നിങ്ങൾക്ക് അവസരം നൽകുന്നു നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു കൂടാതെ നിങ്ങൾ ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ലെങ്കിൽ അത് വളരെ ഗൌരവമായി എടുക്കുന്നില്ല ഒപ്പം നിങ്ങൾക്ക് വളരാനുള്ള അവസരവും നൽകിയിരിക്കുന്നു നിങ്ങൾ പറയുന്നു എനിക്ക് X പഠിക്കണം അത് തെളിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല അഡ്മിനിസ്ട്രേഷൻ ആരംഭിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തെളിയിക്കുക എന്ന് അവർ പറയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞാൽ അവർ പറയും ശരി പോകൂ നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും കൂടാതെ നിങ്ങൾ തിരികെ വരികയും നിങ്ങൾ സ്ഥാപനത്തിന് സംഭാവന നൽകുകയും ചെയ്യും അത് മറിച്ചല്ല ഞാൻ എന്തിന് ഇത്രയധികം പണം ചെലവഴിക്കണം നിങ്ങൾ എന്തെങ്കിലും പഠിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് പലരും നിങ്ങളോട് ചോദിക്കും എന്റെ സ്ഥാപനത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എനിക്ക് എന്തെങ്കിലും പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ സീനിയേഴ്സ് പറയും ഓ കൊള്ളാം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എങ്ങനെ സഹായിക്കാനാകും ആരെങ്കിലും നിങ്ങളുടെ പ്രതിബദ്ധത തിരിച്ചറിയുമ്പോൾ നിങ്ങൾ സ്ഥാപനവുമായി ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങും കൂടാതെ നിങ്ങൾ പരിപോഷിപ്പിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു അതിനാൽ അവരുടെ വിശ്വാസത്തെ വഞ്ചിച്ചതിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നു നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല നിങ്ങൾ പറയുന്നു എനിക്ക് പഠിക്കണം അവർ പറയുന്നു കൊള്ളാം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും സഹായിക്കാൻ നിങ്ങളെ വളരാൻ സഹായിക്കുന്നതിന് എനിക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് എന്തുചെയ്യാൻ കഴിയും അവർ അത് പറയുന്ന നിമിഷം ദൈവമേ അവരുടെ വിശ്വാസം ഞാൻ നിസ്സാരമായി കാണേണ്ടതില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാൻ എനിക്ക് കഴിയണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനെല്ലാം മുകളിൽ നിങ്ങൾ പോകുന്നു ഇതെല്ലാം ആയുധമാക്കി നിങ്ങൾ മടങ്ങിവരുന്നു നിങ്ങൾ പറയുന്നു ഞാൻ ഇത് പരീക്ഷിക്കട്ടെ അവർ പറയുന്നു ഓ കൊള്ളാം അതെ എവിടെ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങളുടെ പരീക്ഷണം സുഗമമാക്കാൻ ഞങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും വീണ്ടും സമ്മർദ്ദം നിങ്ങളുടെ മേൽ വീണ്ടും വരുന്നു ഞാൻ പഠിച്ചതെല്ലാം മൂല്യവത്താണെന്നും സംഘടനയ്ക്ക് സംഭാവന നൽകുമെന്നും ഞാൻ എങ്ങനെ തെളിയിക്കാൻ പോകുന്നു കാരണം സംഘടന എന്നെ അത്രമേൽ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങളുടെ സ്ഥാപനം ഉയരുമെന്നും അവർ നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ അവർ അവരുടെ കഴിവിൽ എല്ലാം ചെയ്യും കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിലകൊള്ളുന്ന അടിസ്ഥാന സ്തംഭമാണിത് നിങ്ങളുടെ ജീവനക്കാരെ വിശ്വസിക്കുക അവരെ പരിപോഷിപ്പിക്കുക അവരെ പിന്തുണയ്ക്കുക കൂടാതെ അവർ വ്യതിചലിക്കുന്നതിനുള്ള സാധ്യതകൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകൾ അവർ ഉൽപ്പാദനക്ഷമമല്ലാതാകാനുള്ള സാധ്യതകൾ ഗണ്യമായി കുറയുന്നു അതിനാൽ അതിനെയാണ് ഞങ്ങൾ പിന്തുണ നൽകുന്ന സംഘടനാ സംസ്കാരം എന്ന് അർത്ഥമാക്കുന്നത്o ജോലിയുടെ മൂല്യനിർണ്ണയത്തെ അടിസ്ഥാനമാക്കിയുള്ള പേയ്മെന്റ് സംവിധാനങ്ങൾക്കുള്ള ഇതരമാർഗങ്ങൾ അതിനാൽ നിങ്ങൾക്കറിയാമോ ഒന്ന് തൊഴിൽ വിലയിരുത്തൽ ആണ് എത്രത്തോളം ഔട്ട്പുട്ട് ഉണ്ട് എന്നത് മറ്റൊരു ബദൽ മാർക്കറ്റ് ബേസ്ഡ് പേ market based pay അതിനാൽ ഡയറക്ട് മാർക്കറ്റ് പ്രൈസിംഗ് സമീപനം അനുസരിച്ച് സ്ഥാപനത്തിന്റെ എല്ലാ ജോലികളും ഞങ്ങൾ താരതമ്യം ചെയ്യുകയും മറ്റ് ഓർഗനൈസേഷനുകളിലെ സമാനമായ ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരേ കോമ്പൻസേഷൻ ഘടനയുണ്ട് കോമ്പീറ്റൻസി ബേസ്ഡ് പേ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നത് അവർ ഇപ്പോൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നതല്ല എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് സംഘടന മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അതിനാൽ അവർ പറയുന്നു ഒരു അവസരം ലഭിച്ചാൽ X എ ബി സി ചെയ്യുന്നു X ന് ഡി ഇ എഫ് എന്നിവയും ചെയ്യാം അതിനാൽ നമുക്ക് അവർക്ക് ഇത്രയും പണം നൽകാം ഇന്ന് നമ്മൾക്ക് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ അവരെ ആവശ്യമില്ലെങ്കിലും നാളെ എനിക്ക് ഈ വ്യക്തിയെ വേണമെങ്കിൽ ജോലി എ ബി എന്നിവയ്ക്ക് പകരം ഇ ജോലി ചെയ്യാൻ പറയാം ആ വ്യക്തിക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരിക്കണം മറ്റൊരാൾക്ക് ചെയ്യാനുള്ള കഴിവില്ല പക്ഷേ ഈ വ്യക്തിക്ക് ഉണ്ട് അതിനാൽ അവരുടെ കഴിവിന് വേണ്ടി ഭാവിയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഞാൻ അവർക്ക് കോമ്പൻസേഷൻ നൽകട്ടെ കൂടാതെ ഇത് പിന്തുണയ്ക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫിലോസഫിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങളുടെ ജീവനക്കാരെ പിന്തുണയ്ക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഇത് പ്രവർത്തിക്കില്ല മറ്റൊന്ന് ലാഭം പങ്കിടലും പങ്കാളിത്ത മാനേജ്മെന്റുമാണ് നയങ്ങൾ രൂപകൽപന ചെയ്യുമ്പോൾ പ്രോഗ്രാമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ജീവനക്കാരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് സംഘടനയുടെ ആത്യന്തിക ദർശനം ദൌത്യം ലക്ഷ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇല്ലായിരിക്കാം പക്ഷേ ഓർഗനൈസേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് പ്രധാനമായും ജീവനക്കാർ പറയുന്നതിനെയും അവർ ചെയ്യുന്നതിനെ കുറിച്ച് അനുഭവിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ അവർ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുമ്പോൾ അത് ഗൌരവമായി എടുക്കുക കൂടാതെ അത് അവരെ ഓർഗനൈസേഷനുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും പിന്നെ തീർച്ചയായും ലാഭം പങ്കിടൽ അതിനാൽ നിങ്ങൾക്ക് ലാഭമുണ്ടെങ്കിൽ അവരുമായി കുറച്ച് പങ്കിടുക അവർക്ക് ഒരു ബോണസ് നൽകുക അവർക്ക് ഒരു അധിക ആനുകൂല്യം നൽകുക കൂടാതെ അവർ നിങ്ങളോട് എത്രത്തോളം അടുക്കുന്നുവെന്ന് നിങ്ങൾ കാണും അതിനാൽ അവർ കഴിവുള്ളവരായതിനാൽ അവർ അവരുടെ ജോലി ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നുന്നു അതിനായി അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്തും അവർക്ക് പ്രതിഫലം ലഭിക്കുന്നു ജോബ് എൻറിച്മൻറ്റ് ജോലിക്കാരന് വളരാനുള്ള ജോലിക്കുള്ളിലെ അവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നു അതിനാൽ നിങ്ങൾ ചെയ്യുന്നതെന്തും X Y Z രീതിയിൽ ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നു കൂടാതെ വ്യാപ്തിയോ സങ്കീർണ്ണതയോ വർദ്ധിപ്പിച്ചോ അല്ലെങ്കിൽ ജോലി കൂടുതൽ ആസ്വദിക്കാൻ ജീവനക്കാരനെ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുന്നതെന്തും ചെയ്തുകൊണ്ടോ നിങ്ങൾ ഒരേ ജോലിയിൽ ജീവനക്കാരന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു ടെക്നോളജിയിലും സംഘടനാ ഘടനയിലും സംഭവിക്കുന്ന പതിവ് മാറ്റങ്ങൾ വീണ്ടും ഇത് കോമ്പീറ്റൻസി ബേസ്ഡ് പേ നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ ഘടകമാണ് അതിനാൽ സാങ്കേതികവിദ്യയിലെ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തി പുതിയ സാങ്കേതികവിദ്യകളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സംഘടനാ ഘടന ഒരു ടീം അധിഷ്ഠിത ഘടനയിലേക്ക് മാറുകയാണെങ്കിൽ ഓർഗനൈസേഷന് കഴിവുണ്ടെങ്കിൽപ്പോലും അവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞേക്കില്ല പക്ഷേ അത് വീണ്ടും ജീവനക്കാർക്ക് അവരുടെ കഴിവിന് പ്രതിഫലം നൽകുന്ന തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എംപ്ലോയി എക്സ്ചേഞ്ചുകൾ റൊട്ടേഷൻ ട്രാൻസ്ഫറുകൾ എന്നിവ ജീവനക്കാർക്ക് മറ്റ് വകുപ്പുകളിലോ മറ്റ് റോളുകളിലോ പ്രവർത്തിക്കാനാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു പഠന അവസരങ്ങൾ ഉണ്ട് ജീവനക്കാരുടെ ഉയർന്ന വിറ്റുവരവ് വീണ്ടും കോമ്പീറ്റൻസി ബേസ്ഡ് പേ തീരുമാനിക്കുന്നു ഇത് കോമ്പീറ്റൻസി ബേസ്ഡ് പേ നിർണ്ണയിക്കുന്നു കാരണം ആളുകൾ വരുമ്പോൾ ഉടൻ തന്നെ സംഭാവന നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ പുതിയ ജീവനക്കാർക്കായി നിങ്ങൾക്ക് എല്ലായ്പ്പോഴും പുതിയ പരിശീലന പരിപാടികൾ നടത്താൻ കഴിയില്ല പൊരുത്തപ്പെടുത്താൻ കഴിയുന്ന ഒരു നിശ്ചിത കഴിവുകളോടെ അവർ വരേണ്ടതുണ്ട് അതിനാൽ വളരെയധികം ജീവനക്കാർ പുറത്തുപോകുകയാണെങ്കിൽ അവർ മേശയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ നിങ്ങൾ തീരുമാനിച്ചേക്കാം അല്ലാതെ അവർ എത്ര കാലമായി ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ മുൻകാലങ്ങളിൽ എന്തുചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല ടീം വർക്കിനുള്ള മൂല്യവും പങ്കെടുക്കാനുള്ള അവസരവുമാണ് കോമ്പീറ്റൻസി ബേസ്ഡ് പേ തീരുമാനിക്കുന്നതിനുള്ള മറ്റൊരു ഘടകം ശമ്പള ആസൂത്രണത്തിലും ഭരണത്തിലും ഉള്ള ചില പോളിസികൾ ഒന്ന് ശമ്പള രഹസ്യം ഇതിനുമുമ്പ് ഒന്നു രണ്ട് പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു പേ സീക്രസി എന്നത് വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വെളിപ്പെടുത്താതിരിക്കൽ ആണ് ഒരു ജീവനക്കാരൻ മറ്റൊരു ജീവനക്കാരനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ശമ്പളം വെളിപ്പെടുത്താനോ വെളിപ്പെടുത്താതിരിക്കാനോ ഉള്ള തീരുമാനമാണ് ഇപ്പോൾ ഇത് സിസ്റ്റം അടിസ്ഥാനമാക്കിയുള്ള ജോലിയും ബിസിനസ് സംബന്ധമായ യുക്തിയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ശമ്പള ശ്രേണികൾ ശമ്പള വർദ്ധനവ് ഷെഡ്യൂളുകൾ നഷ്ടപരിഹാര വകുപ്പിൽ നിന്നുള്ള ശമ്പളവുമായി ബന്ധപ്പെട്ട ഡാറ്റയുടെ ലഭ്യത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവരുടെ ശമ്പള തീരുമാനങ്ങളും സമ്പ്രദായങ്ങളും പരസ്യമായി സംരക്ഷിക്കാൻ ഇത് മാനേജർമാരെ നിർബന്ധിക്കുന്നു അതിനാൽ പേ സീക്രസിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അത് വെളിപ്പെടുത്തില്ല എന്നാൽ പിന്നീട് ഞങ്ങൾ നിർബന്ധിതരാകുന്നു നമ്മൾ രഹസ്യസ്വഭാവമുള്ളവരാണെങ്കിൽ നമ്മൾ എന്തിനാണ് രഹസ്യമായി പെരുമാറുന്നതെന്ന് അറിയാൻ കൂടുതൽ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കും കൂടാതെ ഞങ്ങളുടെ ശമ്പള രേഖകൾ പരിപാലിക്കുന്ന രീതിയിൽ കൂടുതൽ വ്യവസ്ഥാപിതമാകാൻ ഇത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഒരു ദിവസം ഞങ്ങളെ ചോദ്യം ചെയ്യും അപ്പോൾ നമ്മൾ വ്യക്തമായ മറുപടി നൽകണം തെറ്റായ ശമ്പള തീരുമാനത്തിന്റെ വില വർദ്ധിക്കുന്നു വ്യവസ്ഥകളുടെ എല്ലാ പൊരുത്തക്കേടുകളും ബലഹീനതകളും ദൃശ്യമാകുമ്പോൾ രഹസ്യത്തിന്റെ മേലങ്കി നീങ്ങുന്നു പേ സീക്രസി ഒരു വലിയ വെല്ലുവിളിയും വലിയ പ്രശ്നവുമായി വരുന്നു ഞാൻ എന്റെ ശമ്പളം വെളിപ്പെടുത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്താണ് സമ്പാദിക്കുന്നതെന്ന് ജീവനക്കാർ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും എന്തോ കുഴപ്പമുണ്ടെന്ന് അതുകൊണ്ടാണ് സംഘടനയുടെ ശമ്പള ഘടന രഹസ്യമായി സൂക്ഷിക്കുന്നത് എന്തുപറ്റി എന്താണ് സംഭവിക്കുന്നത് രഹസ്യം എടുത്തുകഴിഞ്ഞാൽ ആളുകൾക്ക് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ കൂടുതൽ അവസരങ്ങളുണ്ട് അവർ പറയുന്നു ഇതാണ് നിങ്ങൾ ചെയ്ത തെറ്റ് അതായത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് അതിനാൽ അത് ഒരു വലിയ പ്രശ്നമായി മാറുന്നു ഓപ്പൺ പേ ചില മാനേജർമാരെ വ്യത്യാസങ്ങൾ കുറയ്ക്കാനും വൈരുദ്ധ്യം ഒഴിവാക്കുന്നതിനായി കീഴുദ്യോഗസ്ഥർക്കിടയിൽ പണം നൽകാനും പ്രേരിപ്പിച്ചേക്കാം കൂടാതെ നിരാശരായ ജീവനക്കാരോട് അവർ അത്തരം വ്യത്യാസങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് ഓപ്പൺ പേ സിസ്റ്റം അതിന്റേതായ വെല്ലുവിളികളോടെയാണ് വരുന്നത് കൂടാതെ എല്ലാവരും അവരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു എന്നതാണ് ഒരു വലിയ വെല്ലുവിളി ഒരുപാട് സമയം വളരെ ആത്മനിഷ്ഠമായ രീതിയിലാണ് ശമ്പള തീരുമാനങ്ങൾ എടുക്കുന്നത് പിന്നെ അവിടെയാണ് പ്രശ്നം വരുന്നത് ആത്മനിഷ്ഠമായ രീതിയിലാണ് തീരുമാനമെടുത്തതെങ്കിൽ പ്രതിരോധിക്കാനുള്ള കഴിവ് ഒരാൾ ഒരു ജീവനക്കാരന് നൽകിയതും മറ്റേ ജീവനക്കാരന് നൽകാത്തതും സംശയാസ്പദമായി മാറുന്നു ഒപ്പം സംഘട്ടനത്തിന് കാരണമായേക്കാം അല്ലെങ്കിൽ ജീവനക്കാർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം പണപ്പെരുപ്പത്തിന്റെ ഫലമാണ് ശമ്പള വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതിലെ മറ്റൊരു നയ പ്രശ്നം ശമ്പള സംവിധാനങ്ങൾ എങ്ങനെ നിർണ്ണയിക്കും പണപ്പെരുപ്പം നമ്മുടെ ശമ്പള സംവിധാനത്തെ എങ്ങനെ ബാധിക്കുന്നു പണപ്പെരുപ്പവുമായി നമ്മുടെ ശമ്പള വ്യവസ്ഥകളെ എങ്ങനെ ക്രമീകരിക്കാം ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ ഡിയർനസ് അലവൻസ് എന്ന ആശയം നമുക്കുണ്ട് അതുകൊണ്ടാണ് വാർഷിക പണപ്പെരുപ്പം അല്ലെങ്കിൽ ആനുകാലിക പണപ്പെരുപ്പം ശ്രദ്ധിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ ചെലവേറിയതായി മാറുന്നുവെന്ന് ഞങ്ങൾക്കറിയാം എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ ഇങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വാങ്ങൽ ശേഷി സമാനമായി തുടരുന്നുണ്ടെന്നും പണപ്പെരുപ്പം കാരണം ബാധിക്കപ്പെടുന്നില്ലെന്നും ഉറപ്പാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും അതിനാൽ അത് പരിപാലിക്കാൻ ഡിയർനസ് അലവൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് പേ കംപ്രഷൻ ഉണ്ട് പേ കംപ്രഷൻ എന്നത് ഒരു സ്ഥാപനത്തിന്റെ ശമ്പള ഘടനയിൽ ജോലികൾ അല്ലെങ്കിൽ ശമ്പള ഗ്രേഡുകൾക്കിടയിലുള്ള വേതനത്തിന്റെ അനുപാതങ്ങൾ ചുരുക്കുന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് അല്പം സങ്കീർണ്ണമായ ഒരു ആശയമാണ് അതിനാൽ ഞാൻ ഇത് കുറച്ച് വിശദമായി നിങ്ങളോട് വിശദീകരിക്കും ശമ്പള ഗ്രേഡുകൾ ചിലപ്പോൾ വ്യത്യസ്ത രീതികളിൽ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്ന ശ്രേണികളിലാണ് ഉദാഹരണത്തിന് അസിസ്റ്റന്റ് പ്രൊഫസർ തലത്തിൽ നിന്ന് അസോസിയേറ്റ് പ്രൊഫസറിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടമുണ്ട് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ശമ്പള പരിധിക്കുള്ളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അത് വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു കൂടാതെ അസിസ്റ്റന്റ് പ്രൊഫസർ സ്ഥാനത്ത് നിന്ന് മാറാൻ രണ്ട് വർഷം മുമ്പ് ജോലിയിൽ പ്രവേശിച്ച ഒരാൾക്ക് ഈ വ്യക്തിക്ക് ലഭിക്കുന്ന ശമ്പളം ഒരു വർഷം മുമ്പ് ചേർന്ന ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അധികമല്ല പക്ഷേ അസിസ്റ്റന്റ് പ്രൊഫസറുടെയും അസോസിയേറ്റ് പ്രൊഫസറുടെയും ശമ്പള ഘടനയിൽ കാര്യമായ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ രണ്ട് ഗ്രേഡുകൾക്കിടയിലുള്ള ഈ വിടവ് ചിലപ്പോൾ കുറയുന്നു അതിനാൽ ആളുകൾക്ക് അനുഭവപ്പെടില്ല ഒരു റാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് മുന്നേറുന്നത് എളുപ്പമാണെന്ന് അവർ കരുതുന്നു ഈ ശമ്പള ഗ്രേഡുകൾ കംപ്രസ്സു ചെയ്യുന്നതിന്റെ ഫലമായി ട്രസ്റ്റ് ഗ്യാപ് കുറയുന്നതായി അവർ കരുതുന്നു അതിനാൽ നിങ്ങൾ ആളുകൾക്ക് ഉയർന്ന പ്രതിഫലം നൽകാൻ തുടങ്ങുന്നു ചിലപ്പോൾ വ്യത്യസ്ത തരം ജീവനക്കാർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ക്രമീകരിക്കുന്നതിന് ശ്രേണി വർദ്ധിച്ചു പക്ഷേ ഗ്രേഡുകൾ തമ്മിലുള്ള വ്യത്യാസം കുറയുന്നു ഉദാഹരണത്തിന് ഒരു സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസർ തന്റെ ജൂനിയർ അസോസിയേറ്റ് പ്രൊഫസറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ എന്തെങ്കിലും സമ്പാദിക്കുന്നില്ലായിരിക്കാം പക്ഷേ അത് അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് നൽകുന്ന ശമ്പള പരിധിക്കുള്ളിലാണെന്ന് നിങ്ങൾക്കറിയാം ഏറ്റവും സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് കാര്യമായ വ്യത്യാസം വരാം ഏറ്റവും സീനിയർ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളം ഏറ്റവും ജൂനിയർ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തിൽ നിന്ന് കാര്യമായ വ്യത്യാസമുണ്ടാകാം അതിനാൽ ശ്രേണി വളരെ വലുതാണ് പക്ഷേ ഗ്രേഡുകൾ ചുരുക്കിയിരിക്കുന്നു കൂടാതെ പുരോഗതി സുഗമമായി തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും പുതിയ നിയമനങ്ങൾക്ക് നിങ്ങൾക്ക് ഉയർന്ന തുടക്ക ശമ്പളമുണ്ട് അത് ദീർഘകാല ജീവനക്കാർക്ക് അവരുടെ നിലവിലെ ശമ്പളവും പുതിയ ജോലിക്കാരുടേതും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ കാണാനാകൂ ഇപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമാണ് നിങ്ങൾക്ക് ഉയർന്ന പ്രാരംഭ ശമ്പളമുണ്ട് അതിനാൽ ഇത് കംപ്രസ് ചെയ്തിരിക്കുന്നു പക്ഷേ അപ്പോൾ ഇതിനകം സംഘടനയിൽ ഉള്ള ആളുകൾ ഇത് ഒരു പ്രശ്നമായും അന്യായമായും കാണുന്നു യൂണിയൻ അംഗീകൃത ജീവനക്കാർക്ക് ശമ്പളമുള്ളതും അല്ലാത്തതുമായ ജീവനക്കാരേക്കാൾ മണിക്കൂർ ശമ്പളം വർദ്ധിക്കുന്നു അതിനാൽ യൂണിയനൈസ്ഡ് ജീവനക്കാർക്കുള്ള മണിക്കൂർ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ശമ്പള കംപ്രഷൻ നടപ്പിലാക്കാൻ കഴിയും നിർഭാഗ്യവശാൽ യൂണിയനൈസ്ഡ് ജീവനക്കാർ എന്ന് നമ്മൾ പറയുമ്പോൾ ശമ്പളം ചുരുക്കാൻ സംഘടനയിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന ആളുകളാണ് അവർ ഇപ്പോൾ ശമ്പളമുള്ള ആളുകൾക്ക് ഒരു മണിക്കൂർ ശമ്പളം വർദ്ധിപ്പിക്കാൻ കഴിയില്ല പക്ഷേ ശമ്പളമില്ലാത്ത ആളുകൾക്കോ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ മണിക്കൂർ വേതനക്കാരായ ആളുകൾക്കോ കുറച്ചുകൂടി പണം നൽകാം അതിനാൽ അവരുടെ ശമ്പളവും ശമ്പളക്കാരന്റെ ശമ്പളവും തമ്മിലുള്ള അന്തരം വളരെ വലുതല്ല അതിനാൽ അവർ അതേ അളവിൽ ജോലി ചെയ്യുന്നു കൂടാതെ അവർക്ക് മണിക്കൂറുകൾക്കനുസരിച്ച് ശമ്പളം ലഭിക്കുന്നു കൂടാതെ മറ്റൊരാൾ അതേ അളവിൽ ജോലി ചെയ്യുന്നു പക്ഷേ എല്ലാ മാസവും ശമ്പളം ലഭിക്കുന്നു അതിനാൽ അവർ സമ്മതിക്കുന്നു ഞങ്ങൾ ഇത്രയധികം ജോലികൾ ചെയ്യുന്നു പിന്നെ എന്തിനാണ് അസമത്വം ഈ അസമത്വം കുറയ്ക്കുന്നതിന് നിങ്ങൾ അവരുടെ മണിക്കൂർ വേതനം വർദ്ധിപ്പിക്കുന്നു പക്ഷേ നിങ്ങൾ മറ്റ് ജീവനക്കാരുടെ ശമ്പളത്തിൽ മാറ്റം വരുത്തുന്നില്ല പുതിയ കോളേജ് ബിരുദധാരികളെ മാനേജ്മെൻറ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലികൾക്കായി റിക്രൂട്ട് ചെയ്യുന്നത് നിലവിലെ ജോലിയുള്ളവരേക്കാൾ ശമ്പളത്തിൽ ഈ വിടവ് കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ചില ജീവനക്കാർക്ക് അമിതമായ ഓവർടൈം പേയ്മെന്റുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഓവർടൈം നിരക്കുകളുടെ പേയ്മെന്റ് മറ്റൊരു ഉദാഹരണമാണ് നിങ്ങൾ ഒരു വാരാന്ത്യത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അധിക പണം ലഭിക്കും ഓഫീസ് സമയം കഴിഞ്ഞ് ജോലി ചെയ്താൽ അധിക പണം ലഭിക്കും കൂടാതെ അത് കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ ശമ്പള അസമത്വം അതിനാൽ അതായത് നിങ്ങൾക്കറിയാമോ ഒരാൾ ഈ കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് കൂടാതെ ശമ്പള ഘടന കംപ്രസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ശമ്പള വർദ്ധനവ് മെറിറ്റ് ചാർട്ടുകളെ ആശ്രയിച്ചിരിക്കുന്നു മെറിറ്റ് ചാർട്ടുകൾ എന്ന് നമ്മൾ എന്താണ് വിളിക്കുന്നത് മെറിറ്റ് ചാർട്ടുകൾ സ്ഥാപനത്തിന് ആരാണ് അർഹരാണെന്നും അവർ എന്താണെന്നും തീരുമാനിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന ടൂളുകളാണ് ഒരാൾ എന്താണ് മേശയിലേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ അവളിൽ നിന്നോ അവനിൽ നിന്നോ സംഘടന എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ എവിടെയാണ് നിൽക്കുന്നത് അതിനാൽ ഒരാൾ എത്രമാത്രം മെറിറ്റീവ് ആണ് ആ ഓർഗനൈസേഷനിലെ ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ ഒരാൾ എത്രത്തോളം കഴിവുള്ളവനാണ് ഇത് നിങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണ മെഡലുകളുടെ എണ്ണത്തെയോ നിങ്ങൾ സംഘടനയിലേക്ക് വന്നതിനെയോ ആശ്രയിക്കുന്നില്ല നിങ്ങൾ ഓർഗനൈസേഷനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് നൽകാൻ ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് എന്തിനാണ് എക്സിക്യൂട്ടീവുകൾക്ക് ദീർഘകാല പ്രോത്സാഹന പദ്ധതികൾ ഉപയോഗിക്കുന്നത് മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്കായി ഞങ്ങൾ ദീർഘകാല പ്രോത്സാഹന പദ്ധതികൾ ഉപയോഗിക്കണോ ശരി ആണെങ്കിൽ നമ്മൾ എന്തിന് അത് ചെയ്യണം കാരണങ്ങൾ ഇതാ ഹ്രസ്വകാല പ്രോത്സാഹനങ്ങൾ ഹ്രസ്വകാല ഉൽപ്പാദനക്ഷമതയുടെ സൂചനയാണ് അതിനാൽ മുതിർന്ന എക്സിക്യൂട്ടീവുകൾ എന്തെങ്കിലും ചെയ്യുന്നു അതിന്റെ ഫലങ്ങൾ ഒരു നിശ്ചിത കാലയളവിനുശേഷം മാത്രമേ ദൃശ്യമാകൂ അങ്ങനെ അവർക്ക് ഒരു നീണ്ട കാലയളവിനു ശേഷം പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നു ദീർഘകാല പദ്ധതികൾ സീനിയർ മാനേജ്മെന്റിന് സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടോ മൂന്നോ നാലോ വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രോത്സാഹനം ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ അതിനുശേഷം നിങ്ങൾ ആ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു പുതിയ വിപണികൾ തുറക്കുകയും പഴയവ പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന പുതിയ പ്രക്രിയകൾ സസ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വികസനം അതിനാൽ ദീർഘകാല പദ്ധതികൾ പുതിയ സംരംഭങ്ങൾ സ്ഥാപിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു ലാഭത്തിലേക്കുള്ള ഹ്രസ്വകാല സംഭാവനയെക്കാൾ തന്ത്രപരമായ നേട്ടങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ദീർഘകാല പദ്ധതികൾ സഹായിക്കുന്നു ഹ്രസ്വകാല പ്രോത്സാഹനങ്ങൾ ഹ്രസ്വകാലമാണ് അതിനാൽ ദീർഘകാല പദ്ധതികൾ തന്ത്രവുമായുള്ള സംയോജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ദീർഘകാല പദ്ധതികളും പ്രക്രിയയുടെയും ഫലങ്ങളുടെയും ഉടമസ്ഥാവകാശം പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ പ്രക്രിയ A കൂടാതെ ഞാൻ അതിന്റെ അന്തിമ നിഗമനത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു അതിനാൽ അതാണ് പ്രോത്സാഹനങ്ങൾ ഇപ്പോൾ ഈ പ്രോത്സാഹനങ്ങളുടെയും റിവാർഡ് പ്ലാനുകളുടെയും വിശദാംശങ്ങൾ അടുത്ത ക്ലാസിൽ നോക്കാം പക്ഷേ ഇപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോടെല്ലാം ചർച്ച ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങും ഒപ്പം ശ്രദ്ധിച്ചതിന് വളരെ നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഫോറത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ പോസ്റ്റുചെയ്യാൻ മടിക്കേണ്ടതില്ല അത് ആവശ്യത്തിനായി നൽകിയിട്ടുണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണാം